ആശംസകൾ TALE മൊഡ്യൂൾ 211ാ൦ യൂണിറ്റ്ലേക്ക് സ്വാഗതം ഈ യൂണിറ്റ് 11 ഒരു കോഴ്സിന്റെ ADDIE സിസ്റ്റം ഡിസൈനിന്റെ വികസന ഘട്ടത്തിന്റെ ഭാഗമാണ് മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ വികസന ഘട്ടത്തിന്റെ ഉപപ്രക്രിയ പരിശോധിച്ചു ഡെലിവറി സാങ്കേതികവിദ്യകളുടെയും നിർദ്ദേശ തരങ്ങളുടെയും പങ്ക് മനസ്സിലാക്കി മുമ്പത്തെ യൂണിറ്റിൽ നിന്നുള്ള രണ്ട് പ്രധാന ഘടകങ്ങൾ ഡെലിവറി സാങ്കേതികവിദ്യകളും നിർദ്ദേശ തരങ്ങളുമാണ് ഡെലിവറി സാങ്കേതികവിദ്യകൾ ബ്ലാക്ക്ബോർഡ് അല്ലെങ്കിൽ വൈറ്റ്ബോർഡ് ഇപ്പോഴും ഒരു പ്രധാന സാങ്കേതികവിദ്യയാണെങ്കിലും ധാരാളം പുതിയ സാങ്കേതികവിദ്യകൾ വരുന്നു അവ എളുപ്പത്തിൽ ലഭ്യമാണ് പല സ്ഥാപനങ്ങളും പതുക്കെ ഈ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങി സാങ്കേതികവിദ്യയെ ആശ്രയിച്ച് വികസന ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഗണ്യമായി വ്യത്യാസപ്പെടും സാങ്കേതികവിദ്യകൾ നിങ്ങൾക്ക് ചില സാധ്യതയുള്ള ഗുണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ആ നേട്ടങ്ങൾ ലഭിക്കാൻ അവരുടെ വിഷയത്തെയും പ്രേക്ഷകരെയും സംബന്ധിച്ച് ഈ സാങ്കേതികവിദ്യകളുടെ പങ്ക് മനസിലാക്കണം വ്യക്തമായും ആവശ്യമായ അടിസ്ഥാനസൌകര്യങ്ങൾ ക്ലാസ് മുറിയിൽ ഉണ്ടായിരിക്കണം നിർദ്ദേശതരങ്ങളും ധാരാളം ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നത് 95 ശതമാനത്തിൽ കൂടുതൽ സമയവും ആളുകൾ മുഖാമുഖനിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് മറ്റ് നിർദ്ദേശതരങ്ങളുണ്ട് അതായത് മിശ്രിത പഠനം ഫ്ലിപ്പുചെയ്ത ക്ലാസ് റൂം ഒരു ചെറിയ കൂട്ടം പ്രേക്ഷകർക്ക് നിങ്ങൾ നിലവിൽ പങ്കെടുക്കുന്ന MOOC എന്ന കോഴ്സ് പോലെയുള്ള ഓൺലൈൻ കോഴ്സുകൾ വ്യത്യസ്ത നിർദ്ദേശതരങ്ങളുണ്ട് ഒപ്പം ഓരോ നിർദ്ദേശതരവും ഇൻസ്ട്രക്ടറും വിദ്യാർത്ഥികളും തമ്മിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബന്ധം നൽകുന്നു അവിടെയാണ് ഈ നിർദ്ദേശതരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ബന്ധത്തിന്റെ പങ്ക് വ്യക്തമായി മനസിലാക്കേണ്ടത് നിലവിലുള്ള യൂണിറ്റ് നിർദ്ദേശസാമഗ്രികളുമായും പഠന സാമഗ്രികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നിർദ്ദേശസാമഗ്രികൾ വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശ രൂപകൽപ്പനയുടെ ആവശ്യകതയും പ്രക്രിയയും മനസിലാക്കുക എന്നതാണ് ഇതിൻറെ പരിണിതഫലം പഠനസാമഗ്രികൾ ലളിതവും നേരെയുമാണ് പ്രബോധനസാമഗ്രികൾ വികസിപ്പിച്ചെടുക്കുന്നതിനെ അടിസ്ഥാനമാക്കി ചില നിർദ്ദേശങ്ങളുടെ രൂപകൽപ്പനയുടെ ആവശ്യകതയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇൻസ്ട്രക്ടറും ഇൻസ്ട്രക്ഷൻ ഡിസൈനും ഇൻസ്ട്രക്ഷൻ ഡിസൈൻ എന്താണെന്ന് ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് പ്രബോധന രൂപകൽപ്പനയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിത ഫലം നേടുന്നതിന് സഹായിക്കുന്ന പഠനാനുഭവങ്ങളുടെ ഒരു ശ്രേണിയുടെ ക്രമീകരണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഓരോ ഇൻസ്ട്രക്ടറും അയാൾ ഇതിനകം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിർദ്ദേശസാമഗ്രികൾ തയ്യാറാക്കുന്നു ആ നിർദ്ദേശ സാമഗ്രികൾക്കനുസരിച്ച് അദ്ദേഹം ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നടത്തുന്നു നിർദ്ദേശസാമഗ്രികളിൽ ഇൻസ്ട്രക്ടർ ബോർഡിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ലൈഡുകൾ അല്ലെങ്കിൽ അവർ കാണിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്നിവ ഉൾപ്പെട്ടിരിക്കാം എന്നാൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ പെരുമാറ്റം ഇൻസ്ട്രക്ടർ നൽകുന്ന ആസൂത്രിതമായ പ്രബോധന അനുഭവങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും പ്രബോധനസാമഗ്രികൾ പ്രതിനിധീകരിക്കുന്നത് പ്രവർത്തനശ്രേണിയുടെ ഒരു പദ്ധതിയെ ആണ് നമുക്ക് ഇതിനെ ഒരു സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാം ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ നിർവ്വഹിക്കാൻ പോകുന്നു ആദ്യം പ്രവർത്തനങ്ങളുടെ ക്രമം എഴുതുകa b c മുതലായവ പോലെ ഓരോ പ്രവർത്തനത്തിനും സാമഗ്രികൾ എഴുതുക അവയെ നമുക്ക് ഡയലോഗുകൾ എന്ന് വിളിക്കാം സ്ക്രിപ്റ്റും ഡയലോഗുകളും തീയറ്ററിലും സിനിമകളിലും ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് അവ എങ്ങനെയോ നിർദ്ദേശ രൂപകൽപ്പനയ്ക്ക് ഉചിതമായ പദങ്ങളാണ് ഇവിടെ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് എഴുതേണ്ടതിനെക്കുറിച്ചും ലഭ്യതയെക്കുറിച്ചു൦ തുടർന്ന് ഡയലോഗുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എന്നാൽ ഏത് തരം സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുത് അതിനർത്ഥം പ്രവർത്തനങ്ങളുടെ ക്രമവും സ്വഭാവവും ഇൻസ്ട്രക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഇൻസ്ട്രക്ടർ എടുക്കുന്നു ഏത് തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഇൻസ്ട്രക്ടർ തയ്യാറാക്കണമെന്ന് നിയമനിർമ്മാണം ഇല്ള ഇത് വിഷയത്തിന്റെ സ്വഭാവം അടിസ്ഥാനസൌകര്യങ്ങൾ ഡെലിവറി സാങ്കേതികവിദ്യകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ലഭ്യമായ മറ്റ് ഉറവിടങ്ങൾ കൂടാതെ ഇൻസ്ട്രക്ടർക്ക് തിരഞ്ഞെടുത്ത പ്രബോധന പ്രവർത്തനങ്ങളുടെ സൌകര്യമുണ്ട് സാഹിത്യത്തിൽ ധാരാളം പ്രബോധനപ്രവർത്തനങ്ങൾ ലഭ്യമാണ് വ്യത്യസ്തആളുകൾ വ്യത്യസ്തപ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു മാത്രമല്ല ഒരു ഇൻസ്ട്രക്ടർക്ക് എല്ലാത്തരം പ്രബോധന പ്രവർത്തനങ്ങളിലും ഒരു പിടി ഉണ്ടായിരിക്കാനോ അല്ലെങ്കിൽ പരിചയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനോ കഴിയില്ല കാലാകാലങ്ങളിൽ ഓരോ ഫാക്കൽറ്റി അംഗങ്ങളും ചില തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചില സൌകര്യങ്ങളും ഇഷ്ടങ്ങളും വികസിപ്പിക്കും ഇൻസ്ട്രക്ടർക്ക് സുഖമായി തോന്നുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സ്ക്രിപ്റ്റ് വിഷയം ഒന്നുതന്നെയാണെങ്കിലും രണ്ട് വ്യത്യസ്ത ഫാക്കൽറ്റി അംഗങ്ങളിൽ നിന്നുള്ള രണ്ട് സ്ക്രിപ്റ്റുകളും സമാനമാകില്ല ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ചട്ടക്കൂടിനെ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ എന്ന് വിളിക്കുന്നു നിരവധി ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചട്ടക്കൂടുകൾ ഉണ്ട് ഞങ്ങൾ അവയെ സമഗ്രമായി പട്ടികപ്പെടുത്തുകയോ അവ കൈകാര്യം ചെയ്യുകയോ ചെയ്യില്ല കഴിഞ്ഞ 60 70 വർഷമായി ആളുകൾ സമഗ്രപഠനം ചെയ്യുന്ന ഒന്നാണ് ഇൻസ്ട്രക്ഷൻ ഡിസൈൻ മോഡൽ നിരവധി മോഡലുകൾ നിർദ്ദേശിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നു അതിൽ രണ്ടെണ്ണം മാത്രമേ ഞങ്ങൾ പരാമർശിക്കുകയുള്ളൂ അതിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഒന്നിനെ മാത്രം കൈകാര്യം ചെയ്യും അറിയപ്പെടുന്ന രണ്ട് ഐഡി മോഡലുകൾക്ക് കാരണം ഡേവിഡ് മെറിൽ ഡേവിഡ് കോൾബ് എന്നിവരാണ് ഡേവിഡ് കോൾബ് പരീക്ഷണാത്മകപഠനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കില്ല അതേസമയം ഡേവിഡ് മെറിൽ 2013 ൽ പഠനത്തിന്റെ ആദ്യ അഞ്ച് തത്ത്വങ്ങൾ തിരിച്ചറിഞ്ഞു പഠന തത്വങ്ങൾ വളരെ വിചിത്രമായി തോന്നുന്നില്ല അവ വ്യക്തമാണെന്ന് തോന്നുന്നു എന്നാൽ ആദ്യമായി അദ്ദേഹമാണ് എല്ലാത്തിനേയു൦ ഒരുമിച്ച് ചേർക്കുന്നത് ഈ നിർദ്ദേശ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് 2013 ൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് അത് ഒരു നല്ല വിവര സ്രോതസ്സാണ് പ്രോഗ്രാമുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഒരു വർക്ക് ഷോപ്പ് ആകാം അല്ലെങ്കിൽ ഇത് 4 വർഷത്തെ പ്രോഗ്രാം ആകാം പ്രോഗ്രാമുകളും പ്രാക്ടീസുകളും ചില അല്ലെങ്കിൽ എല്ലാ ആദ്യ തത്ത്വങ്ങളും ഉപയോഗിക്കുന്നു ആദ്യത്തെ തത്ത്വങ്ങളെല്ലാം ഉപയോഗിക്കാനും ആദ്യത്തെ തത്ത്വങ്ങൾ നിങ്ങളുടെ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്താനും കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ചില കാരണങ്ങളാൽ നിങ്ങൾക്ക് ഒരു തത്ത്വം ശ്രദ്ധിക്കാൻ പ്രയാസമാണെങ്കിലു൦ അത് മൂല്യവത്താണ് ഒരു പ്രബോധന പ്രോഗ്രാമിൽ നിന്ന് പഠിക്കുന്നത് പ്രബോധനത്തിന്റെ ആദ്യതത്ത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് നേരിട്ടുള്ള അനുപാതത്തിൽ ആയിരിക്കും നിങ്ങൾക്ക് അഞ്ച് തത്ത്വങ്ങളും ശ്രദ്ധിക്കാനോ സംയോജിപ്പിക്കാനോ കഴിയുമെങ്കിൽ മികച്ച പഠനനേട്ടമാണ് കൈവരിക്കുന്നത് നിങ്ങൾ ഈ തത്ത്വങ്ങൾ ഉപയോഗിക്കുന്ന രീതിയുടെ നേരിട്ടുള്ള അനുപാതത്തിലാണ് ഇത് ഈ ഐഡി മോഡൽ മെറിലിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൃത്യമായി മെറിൽ നിർദ്ദേശിച്ചത് അല്ല വാക്കുകൾ നേരിയതോതിൽ വ്യത്യസ്തമാണ് പക്ഷേ മിക്കവാറും മോഡൽ സമാനമാണ് മെറിലിന്റെ തത്ത്വങ്ങളുടെ ആരംഭം യഥാർത്ഥ ലോക പ്രശ്നമാണ് അത് കേന്ദ്രത്തിലാണ് യഥാർത്ഥ ലോകപ്രശ്നങ്ങൾ "യഥാർത്ഥ ലോകപ്രശ്നങ്ങൾ" എന്നതിന് പകരം കോഴ്സ് ഫലം പ്രാപ്തി അവിടെ നിന്ന് തുടരുന്നതിലൂടെ ഞങ്ങൾ അനുക്രമമായി ചതുർത്ഥാംശങ്ങളിലേക്ക് നീങ്ങുന്നു സജീവമാക്കലും പ്രചോദനവും പ്രകടനം പ്രയോഗ൦ ഇടപഴകൽ സംയോജനം ആദ്യം സജീവമാക്കി പ്രചോദിപ്പിക്കുക തുടർന്ന് പുതിയ അറിവും കഴിവുകളും പ്രകടിപ്പിക്കുക അടുത്ത ഘട്ടത്തിൽ വിദ്യാർത്ഥി പുതിയ അറിവ് നേരിട്ട് പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞത് പുതിയ അറിവുമായി ഇടപഴകുന്നു ഇതിനുശേഷം വിദ്യാർത്ഥി താൻ നേടിയ പുതിയ അറിവോ പുതിയ വൈദഗ്ധ്യമോ തനിക്കറിയാവുന്ന കാര്യങ്ങളുമായി സമന്വയിപ്പിക്കുന്നു അല്ലെങ്കിൽ മുമ്പുള്ള അറിവുമായി ബന്ധിപ്പിക്കുന്നു ഇത് അവബോധപരമായി നേരായും വ്യക്തമായും കാണപ്പെടുന്നു പക്ഷേ ഈ പ്രവർത്തനങ്ങളുടെ ക്രമം ഒരു അസ്വസ്ഥമായ രീതിയിലല്ല മറിച്ച് വ്യവസ്ഥാപിത രീതിയിലാണ് കടന്നുപോകേണ്ടത് അതിനാലാണ് ഞങ്ങൾക്ക് ഒരു ഐഡി മോഡൽ ആവശ്യമായി വരുന്നത് പഠനതത്ത്വങ്ങളുടെ പ്രസ്താവനകൾ പദങ്ങളിൽ ചെറിയ മാറ്റങ്ങളോടെ അല്ലാത്തപക്ഷം മെറിൽ പ്രസ്താവിച്ച തത്ത്വങ്ങളാണിവ യഥാർത്ഥ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ പഠിതാക്കൾ അറിവും നൈപുണ്യവും നേടിയെടുക്കുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു മെറിലിന്റെ പ്രസ്താവന യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ എന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ജോലികളാണ് അത് കോഴ്സ് ഫലങ്ങളോ കഴിവുകളോ അല്ലാതെ മറ്റൊന്നുമല്ല പ്രബോധന രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിവ്പ്രാപ്തി എന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാരണം കഴിവുകൾ കോഴ്സ് ഫലങ്ങളുടെ വിശദീകരണമാണ് പുതിയ അറിവിനും കഴിവുകൾക്കുമുള്ള അടിത്തറയായി പഠിതാക്കൾ കഴിവിനെക്കുറിച്ച് പ്രചോദിപ്പിക്കപെടുകയും അവരുടെ മുൻഅറിവുകളുടെയും നൈപുണ്യത്തിന്റെയും മാനസിക മാതൃക സജീവമാക്കുകയും ചെയ്യുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു രണ്ട് കീവേഡുകൾ ഉണ്ട് ഒന്ന് പ്രചോദിതമാണ് നിങ്ങൾ പ്രചോദിതരാകുമ്പോൾ മാത്രമേ ക്ലാസിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒരു പ്രബോധനപ്രവർത്തനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയില്ലാതെ വ്യക്തമായും നിങ്ങൾക്ക് ഇതിനകം വിദ്യാർത്ഥിയെ നഷ്ടപ്പെട്ടു മറ്റ് പ്രവർത്തനങ്ങൾക്കൊന്നും അർത്ഥമില്ല രണ്ടാമത്തെ തത്ത്വമായ വിദ്യാർത്ഥിയുടെ മുൻഅറിവുകളുടെയും നൈപുണ്യത്തിൻ്റെയും മാനസിക മാതൃക നിങ്ങൾ സജീവമാക്കുന്നു പഠിക്കേണ്ട അറിവും നൈപുണ്യവും പ്രകടമാക്കുന്നത് പഠിതാക്കൾ നിരീക്ഷിക്കുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇൻസ്ട്രക്ടർ പുതിയ അറിവ് പ്രകടിപ്പിക്കുന്നു ഇത് ഒരു പരീക്ഷണമാകാം അല്ലെങ്കിൽ അത് ഒരു പ്രഭാഷണമാകാം അത് എന്തെങ്കിലും അവതരണം ഒരു വീഡിയോ അല്ലെങ്കിൽ ലാബിൽ ഒരു പരീക്ഷണം നടത്തുക അല്ലെങ്കിൽ ഒരു ഭൌതിക വസ്തു കാണിക്കൽ എന്നിവ ആകാം ഇൻസ്ട്രക്ടർ അറിവിനെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നില്ല പഠിക്കേണ്ട പുതിയ അറിവും നൈപുണ്യവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു പഠിതാക്കൾ പുതുതായി നേടിയ അറിവും നൈപുണ്യവും പ്രയോഗിക്കുമ്പോഴോ അതിൽ ഏർപ്പെടുമ്പോഴോ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പ്രകടനം കഴിഞ്ഞയുടനെ വിദ്യാർത്ഥികൾ ആ അറിവുമായി ഇടപഴകുന്നു അല്ലെങ്കിൽ അത് പുതിയ അറിവ് പ്രയോഗിക്കുന്നത് ആകാം ഉദാഹരണത്തിന് പ്രയോഗിക്കുന്നത് കർശനമായി ഒരു പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതേസമയം ഇടപഴകൽ മനസിലാക്കുന്ന പ്രവർത്തനവുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കാം അതുകൊണ്ടാണ് പ്രയോഗിക്കുക ഇടപഴകൽ എന്ന പദം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പഠിതാക്കൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുമ്പോൾ പുതുതായി നേടിയ അറിവും കഴിവുകളും ചർച്ചചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഈ തത്ത്വങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കും ശ്രദ്ധയും സജീവമാക്കലും എനിക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ നേടാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശ്യവും നിറവേറ്റുന്നില്ല ശ്രദ്ധ നേടാത്തതിന് എനിക്ക് വിദ്യാർത്ഥികളെയും നിരവധി ഘടകങ്ങളെയും കുറ്റപ്പെടുത്താം പക്ഷേ എനിക്ക് വിദ്യാർത്ഥിയുടെ ശ്രദ്ധയില്ലെങ്കിൽ തുടക്കത്തിൽ എനിക്ക് തന്നെ നഷ്ടപ്പെട്ടു ആദ്യകാരൃം ഞാൻ എങ്ങനെ ശ്രദ്ധ നേടും അവരുടെ ശ്രദ്ധ നേടുന്നതിന് നിങ്ങൾക്ക് 1 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ സ്റ്റോറി നൽകാനോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് അവതരിപ്പിക്കാൻ പോകുന്ന പ്രവർത്തനത്തിന്റെ ചില ഉദാഹരണങ്ങൾ നൽകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കേസ് പഠനമായി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുകരിക്കാനോ കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പുകളിലേക്കും പ്രൊജക്ടറുകളിലേക്കും ലഭൃത ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് രസകരമായ ഒരു സിമുലേഷൻ തയ്യാറാക്കാനും അവരുടെ ശ്രദ്ധ നേടാനും കഴിയും തീർച്ചയായും ഈ പ്രവർത്തനം കൂടുതൽ സമയമെടുക്കരുത് ഇത് വളരെയധികം സമയമെടുക്കുന്നുവെങ്കിൽ പുതിയ അറിവ് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സമയമില്ല ശ്രദ്ധ നേടിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ പുതിയ പഠനത്തെ ഇതിനകം തന്നെ അറിയാവുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും യോജിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ ശേഖരിക്കാനോ ആഗിരണം ചെയ്യാനോ കഴിയില്ല അതാണ് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉടനടി ലിങ്കുചെയ്യാൻ കഴിയും പുതിയ വിവരങ്ങളുമായി ബന്ധിപ്പിക്കാനാകുന്ന ആ അറിവ് നിങ്ങൾ സജീവമാക്കുന്നു സാധാരണഗതിയിൽ പല അദ്ധ്യാപകരും ഇതിനകം തന്നെ "അവസാന ക്ലാസ്സിൽ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നോക്കാം അല്ലെങ്കിൽ അവലോകനം ചെയ്യാം" എന്ന് പറഞ്ഞ് അത് ചെയ്യുന്നു ഇത് മുൻഅറിവ് ആവാഹിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മുൻഅറിവ് വിദ്യാർത്ഥികൾ ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ വർഷം മുമ്പ് പഠിച്ച വിഷയത്തിൽ നിന്നു൦ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ വിഷയത്തിൽ നിന്ന് എന്തെങ്കിലും ആകാം അത് സജീവമാക്കുന്നതിനും വീണ്ടും അവതരിപ്പിക്കുന്നതിനും ഒരാൾ കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട് അതായത് അത് ദീർഘകാല മെമ്മറിയിലാണെങ്കിൽ അദ്ദേഹം ഭാഗികമായി മറന്നു ഹ്രസ്വകാല മെമ്മറിഏരിയ വഴി നിങ്ങൾക്ക് അറിവ് എത്തിക്കേണ്ടതുണ്ട് ആ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനോ പുതിയ വിവരങ്ങളുമായി അതു ബന്ധപ്പെടുത്താനോ കഴിയും സജീവമാക്കുന്നതിന്റെ ഭാഗമായി ഇൻസ്ട്രക്ടർ നിലവിലെ അറിവിന്റെ നിലവാരം വിലയിരുത്തുകയും അത് വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് പഴയ പഠനം ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്ന് അത് സജീവമാക്കേണ്ടതുണ്ട് ഇത് ശക്തമായ ഒരു പ്രസ്താവനയാണ് "നിലവിലുള്ള ഘനീഭൂതമായ അറിവുകളുമായി ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ പുതിയതൊന്നും പഠിക്കാൻ കഴിയില്ല " എന്നാൽ ഏതെങ്കിലും കോഴ്സിലോ ഏതെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിവുള്ളതും ബന്ധപ്പെട്ടതുമായ മുൻ അറിവുകളൊന്നുമില്ല മനഃപാഠമാക്കലിലൂടെ മാത്രമേ ഒരാൾക്ക് പഠിക്കാൻ കഴിയൂ അത് ബോർഡിൽ അവതരിപ്പിച്ചതോ കടലാസിൽ എഴുതിയതോ ആണ് ഞങ്ങൾ അതിനെ ഒരു തരം പഠനമായി കണക്കാക്കുന്നു മാത്രമല്ല പരീക്ഷ കഴിഞ്ഞാലുടൻ അത്തരം പഠനം അപ്രത്യക്ഷമാകും നിർദ്ദിഷ്ട പുതിയ അറിവിനെ വിദ്യാർത്ഥികളുടെ നിലവിലുള്ള അറിവുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു അധ്യാപകൻ ശക്തമായ ശ്രമം നടത്തേണ്ടതുണ്ട് ക്ലാസ്സിലേക്ക് വരുന്നതിനുമുമ്പ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ലെവലോ സമാന അറിവോ ഉണ്ടാകില്ലെന്ന് സമ്മതിച്ചു എന്നാൽ അതിനാണ് തയ്യാറാകേണ്ടത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരസ്പരം വ്യത്യാസമുണ്ടെങ്കിൽ എന്തുസംഭവിക്കുമെന്ന് ഞങ്ങൾ പറയില്ല നിങ്ങൾ അതിനെ എങ്ങനെ പരിപാലിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരേയൊരു കാര്യം സമയമെടുക്കും എന്നതാണ് നിങ്ങൾക്കത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ സമയമെടുക്കും ശ്രദ്ധയുടെയും സജീവമാക്കുന്നതിന്റെയും ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിർദ്ദേശഘടകങ്ങൾ പ്രവർത്തനങ്ങൾ ഏതാണ് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക മോട്ടിവേഷണൽ സ്റ്റോറികൾ സിമുലേഷനുകൾ മൾട്ടിമീഡിയ അവതരണങ്ങൾ ക്ലാസ് ചർച്ചകൾ ക്വിസ് പുനർവിചിന്തനം ഫീൽഡ് ട്രിപ്പ് ഡാറ്റ ശേഖരിക്കുകയും ഡാറ്റവിശകലനവും വിപുലമായ ഗ്രാഫിക് ഓർഗനൈസർമാർ എന്നിവ ശ്രദ്ധയും സജീവമാക്കലും അഭിസംബോധന ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് നൂതന ഗ്രാഫിക് ഓർഗനൈസറുകളിൽ ഒന്ന് കൺസെപ്റ്റ് മാപ്പ് ആണ് അവയെല്ലാം എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ടിവരുമെന്ന് ഇതിനർത്ഥമില്ല കയ്യിലുള്ള യോഗ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യമായവ ഏതെന്ന് ഒരു ഇൻസ്ട്രക്ടർ തീരുമാനിക്കണം ഏതൊരു അധ്യാപകനും പ്രകടനം മനസ്സിലാക്കാൻ എളുപ്പമാണ് അവൻ അല്ലെങ്കിൽ അവൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് അതാണ് പുതിയ അറിവിന്റെയും കഴിവുകളുടെയും അവതരണമാണ് പ്രകടനം ഇത് ഒരു പ്രഭാഷണത്തിലൂടെ അവതരിപ്പിക്കാം ഒരു പ്രഭാഷണവും ബ്ലാക്ക്ബോർഡും പ്രഭാഷണവും എൽസിഡി പ്രൊജക്ടറിലൂടെ ഒരു പിപിടി അവതരണവും ഒന്ന് പുതിയ വിവരങ്ങൾ അവതരിപ്പിക്കുന്നു കൂടാതെ ഏത് തരത്തിലുള്ള പ്രശ്നത്തെ ആശ്രയിച്ച് നിങ്ങൾ നോക്കുന്നുവോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പ്രവർത്തിച്ച ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ ഒരു ഭാഗം ഇവ അവതരിപ്പിച്ച വിവരങ്ങൾ നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് കാണിക്കുന്നു ഇവിടെയാണ് ഇൻസ്ട്രക്ടറുടെ സംഭാവന വരുന്നത് ഞാൻ എത്ര പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു ഓരോ പ്രശ്നത്തിന്റെ വ്യാപ്തിയും കഴിവിന്റെ എല്ലാ സവിശേഷതകളും എന്താണ് അവശ്യ സവിശേഷതകൾ എന്ന് ഞാൻ കരുതുന്നത് ഞാൻ എങ്ങനെ അഭിസംബോധന ചെയ്യും പ്രകടനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നൈപുണ്യവുമായി പൊരുത്തപ്പെടണം യോഗ്യത ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പക്ഷേ പ്രകടനം രൂപകൽപ്പനയല്ല സർക്യൂട്ടിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു രൂപകൽപ്പന ഉദാഹരണം ഉപയോഗിക്കുന്നില്ല സർക്യൂട്ടി൯്റെ പ്രവർത്തനപരമായ ആവശ്യകത എന്താണ് ഘടകങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും ഏത് തരത്തിലുള്ള ബദലുകൾ ലഭ്യമാണ് സർക്യൂട്ട് ഡിസൈൻ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്നതാണ് രൂപകൽപ്പന ഉദാഹരണം നിങ്ങൾ ഒരു സർക്യൂട്ടിന്റെ രൂപകൽപ്പനയിലൂടെ കടന്നുപോകുന്നില്ലെങ്കിൽ പ്രകടനം യോഗ്യതയുമായി പൊരുത്തപ്പെടുന്നില്ല കാരണം ഞങ്ങൾ ഒരു സർക്യൂട്ടിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട കഴിവുകൾ പ്രോത്സാഹിപ്പിക്കണം അധ്യാപകൻ ഒരു സർക്യൂട്ടിന്റെ രൂപകൽപ്പന പ്രദർശിപ്പിക്കണം പൊതുവായ വിവരങ്ങളോ ഒരു ആയോജികഘടനയോ നിർദ്ദിഷ്ട സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിതാക്കളെ നയിക്കണം ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനോ പൊതുവായി വിശദീകരിക്കുന്നതിനോ പകരം നിർദ്ദിഷ്ട ഉദാഹരണങ്ങൾ ആവശ്യമാണ് അത് എന്താണ് ചെയ്യുന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് ഇവയെല്ളാം ഉപേക്ഷിക്കുക അത്തരം വിവരങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം നിലനിൽക്കില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിർദ്ദേശഘടകങ്ങൾ ഏതാണ് സംവേദനാത്മക പ്രഭാഷണം മൾട്ടിമീഡിയ അവതരണങ്ങൾ സിമുലേഷനുകൾ ഉദാഹരണപ്രശ്നങ്ങൾ ഫീൽഡ് പ്രകടനം പരീക്ഷണാത്മകപ്രകടനങ്ങൾ ഗ്രാഫിക് സംഘാടകർ അല്ലെങ്കിൽ നൂതന ഗ്രാഫിക് സംഘാടകർ ഗ്രാഫിക് ഓർഗനൈസർ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ പട്ടിക അല്ലെങ്കിൽ ചില ബ്ലോക്ക് ഡയഗ്രം അല്ലാതെ മറ്റൊന്നുമല്ല നൂതന ഗ്രാഫിക് ഓർഗനൈസർമാർ വിഷയ മാപ്പുകൾ കോൺസെപ്റ്റ് മാപ്പുകൾ മുതലായവ ആകാം മൊഡ്യൂൾ 3 ലെ ഈ നിർദ്ദേശ ഘടകങ്ങളിൽ ചിലത് ഞങ്ങൾ വീണ്ടും പരിശോധിക്കും പ്രാഥമിക പ്രശ്നം പഠിതാക്കൾ പുതുതായി നേടിയ അറിവുകളുമായി ഇടപഴകുകയോ പ്രശ്നപരിഹാരത്തിന് പൊരുത്തമുള്ള കഴിവുമായി പ്രയോഗത്തിൽ വരുത്തുകയോ ചെയ്യണം എന്നാൽ വീണ്ടും നേരത്തെ ഉദാഹരണം എടുക്കാം നേടേണ്ട കഴിവു ഇലക്ട്രോണിക് സർക്യൂട്ട് രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ വിദ്യാർത്ഥി ഉടനെ ഒരു സർക്യൂട്ട് രൂപകല്പന അറിവ് പ്രയോഗിക്കണം എത്ര ലളിതമാണെങ്കിലും ഇത് ഉടനടി പ്രയോഗിക്കണം അടിസ്ഥാന പഠന തത്ത്വങ്ങളിലൊന്ന് ഒരു പഠിതാവ് പുതിയ വിവരങ്ങളോടും കഴിവുകളോടും പ്രകടനത്തിന് ശേഷം കുറഞ്ഞ സമയ ഇടവേളയിൽ ഏർപ്പെടണം എന്നതാണ് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സെമസ്റ്ററിന്റെ അവസാനത്തിൽ ഞങ്ങൾ ഈ അറിവ് പ്രയോഗിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോഴ്സുകൾ നിങ്ങൾ നിർത്തി 3 സെമസ്റ്ററുകളിൽ പിന്നീട് ഈ അറിവ് പ്രയോഗിക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല നിങ്ങൾ നൽകുന്ന അറിവ് ഉടനടി പ്രയോഗിക്കില്ല എന്നത് ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള തെറ്റായ മാർഗ്ഗമാണിത് പ്രകടനവും പ്രയോഗവും തമ്മിലുള്ള സമയവിടവ് കഴിയുന്നത്ര ചെറുതായിരിക്കണം ഇത് ഭൂരിഭാഗം അധ്യാപകരും പിന്തുടരാത്ത ഒരു പ്രധാന തത്ത്വമാണ് കാരണം വിവരങ്ങൾ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുകയും വിവരങ്ങളുടെ പ്രയോഗം വീട്ടിൽ തന്നെ വിദ്യാർത്ഥിക്ക് നൽകുകയും ചെയ്യുന്നു ഇത് തൃപ്തികരമായി പ്രവർത്തിക്കുന്നില്ല മറ്റൊരു തത്ത്വമുണ്ട് നിങ്ങൾ വിദ്യാർത്ഥിയെ അറിവ് അതിന്റെ പിന്നിലെ എല്ലാ സിദ്ധാന്തങ്ങളും മനസ്സിലാക്കാതെ പ്രയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ ആദ്യം അവനെ അറിവ് പ്രയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും തുടർന്ന് അറിവ് അവതരിപ്പിക്കുകയും ചെയ്യുക അതായത് ഈ കോഴ്സിൽ ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ രീതികൾ ഞങ്ങൾ അവതരിപ്പിക്കുകയും അതിന് പിന്നിൽ ധാരാളം സിദ്ധാന്തങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഞങ്ങൾ എല്ലാ സിദ്ധാന്തങ്ങളും നടത്തിയ ഗവേഷണങ്ങളും വിശദീകരിക്കുന്നില്ല ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് പുതിയ വിവരങ്ങൾ ഗവേഷണം നടത്തിയ തത്ത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നന്നായി പറഞ്ഞ് ഞങ്ങളെ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നതുപോലെ ഞങ്ങൾ പറയുന്നു വിദ്യാർത്ഥികൾ പുതിയ അറിവുമായി ഇടപഴകുമ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതുതായി നിർമ്മിച്ച മാനസിക മാതൃകയുടെ കൃത്യതയും പര്യാപ്തതയും ഉറപ്പുവരുത്തുന്നതിന് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് സ്വതസിദ്ധമായ അല്ലെങ്കിൽ തിരുത്തൽ ഫീഡ്ബാക്ക് ലഭിക്കണം നിങ്ങൾ ഇടപഴകുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ നിലവിലുള്ള അറിവ് അല്ലെങ്കിൽ നിലവിലുള്ള മാനസികമാതൃകയുമായി പുതിയ വിവരങ്ങൾ ബന്ധിപ്പിക്കുന്നു അവർ ഇടപഴകുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമ്പോൾ ചില പിശകുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട് കൂടാതെ തിരുത്തൽ ഫീഡ്ബാക്ക് നൽകണം പരിശീലനം അല്ലെങ്കിൽ ട്യൂട്ടോറിംഗ് അല്ലെങ്കിൽ സൂചനകൾ നൽകൽ തുടങ്ങിയവയ്ക്ക് പഠനം മെച്ചപ്പെടുത്താൻ കഴിയും വിദ്യാർത്ഥി അറിവ് ആന്തരികമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോച്ചിംഗ് ക്രമേണ പിൻവലിക്കണം ഇത് വായിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കാം ഇവയ്ക്കെല്ലാം സമയം എവിടെയാണ് എൻ്റെ ക്ലാസ്സിലെ 60 വിദ്യാർത്ഥികളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും ഓരോ വിദ്യാർത്ഥിയുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് ക്ലാസ് മുറിയിൽ എവിടെയാണ് സമയം അതെ നിങ്ങൾക്ക് സമയം ഇല്ല അതാണ് വെല്ലുവിളി ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടാം എന്നത് മറ്റൊരു പ്രശ്നമാണ് എന്നാൽ ചില സാങ്കേതികവിദ്യയുടെ ഉപയോഗം ഇതിനെ ഗണ്യമായി പിന്തുണയ്ക്കുന്നു മൊഡ്യൂൾ 3 ൽ ഞങ്ങൾ അതിൽ ചിലത് സംസാരിക്കും പക്ഷേ ഇത് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് വൈവിധ്യമാർന്ന കഴിവുകളുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒരേ സമയത്ത് താഴ്ന്ന നിലവാരവും ഉയർന്ന നിലവാരവും ഉള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം നിറവേറ്റുക എളുപ്പമല്ല കൂടാതെ പലപ്പോഴും അത് സാധ്യമായേക്കില്ല എല്ലാ വിദ്യാർത്ഥികളെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ നിങ്ങൾ മറ്റ് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം പ്രയോഗിക്കുന്നതിനും ഇടപഴകുന്നതിനുമുള്ള നിർദ്ദേശ ഘടകങ്ങളിൽ കുറിപ്പ് നിർമ്മാണം ഉൾപ്പെടുന്നു അതായത് ഈ വിദ്യാർത്ഥികളോട് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ നിങ്ങൾ ആവശ്യപ്പെട്ടേക്കാം സംഗ്രഹം വ്യക്തിഗതപ്രശ്നപരിഹാരം പരിശീലനം ഗ്രൂപ്പ്പ്രശ്നപരിഹാരം റിപ്പോർട്ട് എഴുതുക അവതരണങ്ങൾ നടത്തുക ഗ്രൂപ്പ്ചർച്ചകൾ എന്നിവയും അതിലേറെയും ഇനിപ്പറയുന്ന മൊഡ്യൂളിനുള്ളിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചില നിർദ്ദേശഘടകങ്ങളാണിവ പഠിതാവ് അവർ പഠിച്ച കാര്യങ്ങൾ അൽപ്പം കൂടുതലായി ചിന്തിക്കണം അതിനർത്ഥം ആന്തരികമായി നോക്കുക അവൻ അവൾ എന്താണ് പഠിച്ചത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് ഏത് സാഹചര്യത്തിലാണ് അവൻ അവൾ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവൻ അവൾ അത് ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ വിദ്യാർത്ഥി ചെയ്യേണ്ട ഒരു മനനമുണ്ട് ഈ പ്രക്രിയയിൽ പഠിതാവ് സമപ്രായക്കാരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനുമായി സംസാരിക്കുന്നു അല്ലെങ്കിൽ അത് 23 ആളുകളുടെ ഒരു ഗ്രൂപ്പായിരിക്കാം നിങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതെ എൻ്റെ ധാരണ ശരിയാണ് ഒടുവിൽ അവയെ നിലവിലുള്ള അവയുടെ മാനസികമാതൃകയുമായി ബന്ധപ്പെടുത്തുക ഇതാണ് സംയോജന പ്രക്രിയ ക്ലാസ് ചർച്ചകൾ ഗ്രൂപ്പ് ചർച്ചകൾ ക്വിസ് സംഗ്രഹവും നിങ്ങൾ ലക്ഷ്യങ്ങളും ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര ദൂരം എത്തിയെന്നും നിങ്ങൾ എവിടെയാണെന്നും എത്ര ദൂരം പോകണമെന്നും ലക്ഷ്യങ്ങളും ഫീഡ്ബാക്കും ഇവയിലേതുമാകാം പ്രബോധന ഘടകങ്ങൾ ഒരു നിർദ്ദേശഘടകത്തിന്റെ ഘടന ഞങ്ങൾ ഏത് ക്രമത്തിൽ പോകുന്നു ആദ്യത്തേത് നമുക്കെല്ലാവർക്കും പരിചിതമായ യോഗ്യതാപ്രസ്താവനയാണ് ആദ്യത്തെ ഘട്ടം ശ്രദ്ധയും സജീവവുമാണ് കഴിവ് ഒരു പ്രബോധനയൂണിറ്റാണെന്ന് നമുക്ക് പറയാം ഇത് 2 മുതൽ 4 മണിക്കൂർ വരെയാകാം 4 മണിക്കൂർ പ്രബോധന യൂണിറ്റിന് 3 മണിക്കൂർ പ്രഭാഷണം ഉൾക്കൊള്ളാൻ തുടക്കത്തിലും അവസാനത്തിലും കുറച്ച് മിനിറ്റ് വിദ്യാർത്ഥികളെ അറിവ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കൽ എന്നിങ്ങനെ കഴിയില്ല പുതിയ അറിവ് പ്രകടിപ്പിക്കുന്നതും പ്രയോഗത്തിൽ വരുത്തുന്നതും തമ്മിലുള്ള സമയ വിടവ് കഴിയുന്നത്ര ചെറുതായിരിക്കണം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് പിളർക്കും ശ്രദ്ധയും സജീവമാക്കൽ ഘട്ടവും അതിനുശേഷം ഒരു ചെറിയ പ്രകടനവും ഒരു ചെറിയ പ്രയോഗിക്കൽ ഘട്ടവും അവയിൽ ഒരു ക്രമവും ഉണ്ട് ഒരു യോഗ്യതയിൽ അത്തരം 3 പ്രദർശന ഘടകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായി വരില്ല അത്തരമൊരു ശ്രേണിക്ക് ശേഷം പഠിതാക്കൾ അറിവ് സമന്വയിപ്പിക്കണം പ്രകടനത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും വിഭജനം പൂർണ്ണമായും ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്നു ഇതിന് കുറച്ച് പരിശീലനം ആവശ്യമാണ് ഇവ ഏറ്റവും മികച്ചത് ആകുന്നത് ഫാക്കൽറ്റി ഗ്രൂപ്പായോ അല്ലെങ്കിൽ കുറഞ്ഞത് 2 ഫാക്കൽറ്റികളായോ പരസ്പരം ഇടപഴകുമ്പോഴാണ് ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിൻ്റെ ഉദാഹരണം ഇങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനായുള്ള സ്ക്രിപ്റ്റ് ശേഖരിക്കുന്നത് തയ്യാറാക്കുന്നത് സ്ക്രിപ്റ്റിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗ്ഗമായിരിക്കും പട്ടിക ഇത് പ്രോഗ്രാമിംഗിനെക്കുറിച്ചുള്ള ഒരു കോഴ്സിന്റെ നിർദ്ദേശയൂണിറ്റ് 6 ആണ് "ജമ്പ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ മനസിലാക്കുക" യോഗ്യതാ പ്രസ്താവന 2 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്തു പക്ഷേ ലബോറട്ടറിയുമായി ബന്ധമില്ല പ്രോഗ്രാം ഫ്ലോ നിയന്ത്രണനിർദ്ദേശങ്ങൾ മനസിലാക്കുന്നതിന്റെ ഭാഗമാണ് ഈ കഴിവ് CO3 ന് കീഴിൽ മറ്റ് നിർദ്ദേശ യൂണിറ്റുകളും ഉണ്ട് 2 മണിക്കൂർ ഉണ്ട് യോഗ്യതയുടെ പ്രസക്തി വിശദീകരിക്കാൻ ഞാൻ ഏകദേശം 5 മിനിറ്റ് എടുക്കും അർത്ഥവത്തായ പ്രോഗ്രാമുകൾ എഴുതുന്നതിന് നിർദ്ദേശങ്ങളുടെ ജമ്പ് ഗ്രൂപ്പ് മനസിലാക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ഞങ്ങൾ ബ്ലാക്ക്ബോർഡ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഒരുപക്ഷേ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയും ഇങ്ങനെയാണ് ജമ്പ് നിർദ്ദേശം പ്രസക്തമെന്ന് പറയുകയും ചെയ്യും സജീവമാക്കൽ വിദ്യാർത്ഥികൾക്ക് ഇതിനകം അറിയപ്പെടുന്ന അൽഗോരിതംസ് സി പ്രോഗ്രാമുകളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ പിപിടി ഉപയോഗിച്ച് അവതരിപ്പിക്കാൻ ഞാൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും പിപിടി വഴി നിരുപാധികമായ ജമ്പ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രകടനം 1 ഞാൻ 30 മിനിറ്റ് ചെയ്യുന്നു ആ അറിവ് ഉടനടി പ്രയോഗിക്കാൻ ഞാൻ വിദ്യാർത്ഥിക്ക് 15 മിനിറ്റ് നീക്കിവയ്ക്കുന്നു തന്നിരിക്കുന്ന ജമ്പ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികൾ നിർണ്ണയിക്കുന്ന ഒരു ക്വിസിന്റെ രൂപത്തിലാകാം ഇത് അവർ അറിവ് പ്രയോഗിക്കുമ്പോൾ ഒരാൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അവർ അത് പ്രയോഗിക്കുന്നില്ല പക്ഷേ അവർ ഉടൻ തന്നെ ആ അറിവുമായി ഇടപഴകുന്നു എനിക്ക് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഞാൻ അത് എങ്ങനെ ചെയ്യും അത് ഒരു വെല്ലുവിളിയാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു ക്ലാസ്സ് സെഷൻ രണ്ടാം മണിക്കൂർ അതിലൂടെ നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ 2 മിനിറ്റ് സമയം തരും മറ്റൊരു ഉദാഹരണം CO5 ന് കീഴിലുള്ള ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് U12 CO5 ന് കീഴിൽ ഞങ്ങൾക്ക് 4 കഴിവുകളുണ്ട് പ്രസിഷൻ റക്റ്റിഫയറുകളുടെയും ഡിസി വോൾട്ടേജ് റെഗുലേറ്ററുകളുടെയും ഡിസൈൻ C4 മായി ബന്ധപ്പെട്ടിരിക്കുന്നു 2 മണിക്കൂർ ക്ലാസ് ആവശ്യമാണ് CO5 വളരെ ദൈർഘ്യമേറിയ ഒരു പ്രസ്താവനയാണ് അനലോഗ് ലീനിയർ സിഗ്നൽ പ്രോസസ്സിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്യൂട്ടുകളുടെ ഡിസൈനാണ് അവിടെ പ്രസക്തി സജീവമാക്കൽ ഒരു പ്രകടനം പ്രയോഗം എന്നിവ ഉൾപ്പെടുന്ന ആദ്യ മണിക്കൂർ എടുക്കുക പ്രയോഗത്ത൯്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഒരു പ്രസിഷൻ ഹാഫ് വേവ് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യത് ഇൻപുട്ട് വോൾട്ടേജ് പരിധി 10 മില്ലിവോൾട്ട് മുതൽ 5 വോൾട്ട് വരെ നൽകി അതിന്റെ കൃത്യത പ്രകടമാക്കുകയും ചെയ്യും പ്രയോഗത്തിന് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സിമുലേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട് അതിന് ഒരു ലാപ്ടോപ്പ് ആവശ്യമാണ് ഇവിടെ പുതിയ പ്രദർശിപ്പിച്ച അറിവിൻ്റെ പ്രയോഗത്തിന് യഥാർത്ഥ സിമുലേഷൻ ആവശ്യമാണ് അതിനർത്ഥം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അവരുടെ പക്കലുണ്ട് അവ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ അനുകരിക്കേണ്ട സർക്യൂട്ട് ഇതിനകം തന്നെ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു നിർദ്ദിഷ്ട ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണിയിൽ സർക്യൂട്ടിന്റെ സ്വഭാവം മാത്രമാണ് അവർ നോക്കുന്നത് അതാണ് ഇവിടെയുള്ള സ്ക്രിപ്റ്റ് രണ്ടാം മണിക്കൂർ നിങ്ങൾക്ക് വായിക്കാൻ 2 മിനിറ്റ് സമയം നൽകും ഞങ്ങൾക്ക് 2 പ്രകടനങ്ങളും 2 പ്രയോഗങ്ങളും ഉണ്ടായിരുന്നു ഒടുവിൽ ഞങ്ങൾ സംയോജിപ്പിക്കുകയാണ് ഇതിനായി ഞങ്ങൾ 10 മിനിറ്റ് അനുവദിച്ചു ഞങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് കൃത്യമായ തിരുത്തലും വോൾട്ടേജ് നിയന്ത്രണവും ഉൾപ്പെടെ രണ്ട് പ്രധാന സിഗ്നൽ പ്രോസസ്സിംഗ് പ്രയോഗങ്ങൾ നേടുന്നതിൽ ഒരു ഒപ് ആമ്പിനു ചുറ്റുമുള്ള ഫീഡ്ബാക്കിന്റെ പങ്ക് ചർച്ചചെയ്യുക അതായത് 2 അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് പ്രയോഗങ്ങൾ ഉണ്ട് ഒന്ന് കൃത്യമായ തിരുത്തലും മറ്റൊന്ന് വോൾട്ടേജ് നിയന്ത്രണവുമാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ചാണ് ഇവ രണ്ടും നേടുന്നത് പ്രധാനമായും ഫീഡ്ബാക്ക് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നേടുന്നത് അനലോഗ് സർക്യൂട്ടുകളും സിസ്റ്റങ്ങളും സംബന്ധിച്ച് ഫീഡ്ബാക്കിന്റെ പങ്ക് മനസിലാക്കേണ്ടത് വിദ്യാർത്ഥിക്ക് ആവശ്യമാണ് അവിടെയാണ് സംയോജനം നടക്കുന്നത് ഫീഡ്ബാക്കിന്റെ പങ്ക് ചർച്ച ചെയ്യുന്ന പ്രക്രിയയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് രണ്ട് സാമ്പിൾ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റുകൾക്കുള്ള സ്ക്രിപ്റ്റ് എഴുതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തന ഭാഗത്തേക്ക് വരുന്നതിനാൽ ഒരു നിർദ്ദേശ യൂണിറ്റിനായി നിർദ്ദേശസാമഗ്രികൾ തയ്യാറാക്കണം അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് നിർദ്ദേശയൂണിറ്റിന്റെ ഘടന അനുസരിച്ച് നിർദ്ദേശസാമഗ്രികൾ ക്രമീകരിക്കേണ്ടതുണ്ട് അതിനർത്ഥം നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധയും സജീവമാക്കലും പോലുള്ള ശീർഷകം നൽകാം ആ വിദ്യാർത്ഥിയുടെ ശ്രദ്ധ നേടുന്നതിനോ അവരെ പ്രചോദിപ്പിക്കുന്നതിനോ നിങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എഴുതുക മുൻഅറിവ് സജീവമാക്കുന്നതിന് ഞാൻ ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ചുവടെ എഴുതുന്നു ഞാൻ ഒരു ക്വിസ് ചെയ്യുകയാണെങ്കിൽ ക്വിസ് എന്താണെന്ന് ഞാൻ എഴുതണം അല്ലെങ്കിൽ ഞാൻ ഒരു ചർച്ച അവതരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ ചർച്ച രൂപപ്പെടുത്തണം കാരണം ക്ലാസ് മുറിയിൽ സമയം വളരെ പരിമിതമാണ് മാത്രമല്ല ഒരാൾക്ക് അത് കൊണ്ടുപോകാനും കഴിയും നിങ്ങൾ ഒരു ചർച്ച ആരംഭിച്ചാൽ കാര്യങ്ങൾ വേഗത്തിൽ കൈവിട്ടുപോകുകയും ധാരാളം സമയം നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾ വളരെ വ്യക്തമായി സ്ക്രിപ്റ്റ് എഴുതേണ്ടത് പ്രബോധനസാമഗ്രികളിൽ യോഗ്യതാപ്രസ്താവന ശ്രദ്ധയും സജീവമാക്കലും പ്രകടനം പ്രയോഗങ്ങൾ ഒന്നിൽ കൂടുതൽ ആകാം ഒടുവിൽ സംയോജനം എന്നിവ ഉൾപ്പെടും ഓരോന്നിനും കീഴിൽ ഞങ്ങൾ പരിമിതമായ എണ്ണം നിർദ്ദേശഘടകങ്ങൾ ഉപയോഗിക്കുന്നു കൂടാതെ സ്ക്രിപ്റ്റിന് അനുസൃതമായി നിങ്ങൾ സാമഗ്രികൾ തയ്യാറാക്കണം പ്രകടനത്തിനും പ്രയോഗത്തിനുമുള്ള നിർദ്ദേശ ഘടകങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇൻസ്ട്രക്ടർ നടത്തേണ്ടതുണ്ട് ഓരോ നിർദ്ദേശഘടകത്തിനും അനുവദിച്ച സമയത്തെ ആശ്രയിച്ചിരിക്കും പ്രബോധനസാമഗ്രികൾ അങ്ങനെയാണ് നിങ്ങളുടെ പ്രബോധനസാമഗ്രികൾ തയ്യാറാക്കേണ്ടത് ഞങ്ങൾ അതിൽ ചിലത് അവബോധജന്യമായി ചെയ്യുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾ അത് അവബോധപൂർവ്വം ചെയ്യുമ്പോൾ എല്ലാ നിർദ്ദേശ യൂണിറ്റുകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ തുല്യ ശ്രദ്ധ നൽകുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അതിനാൽ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനായി നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് പൂരിപ്പിക്കാൻ ആരംഭിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ സാന്ദർഭികമായി ഒന്നും തന്നെ അനുവദിക്കുന്നില്ല ഒരിക്കൽ കൂടി നിരവധി ഫാക്കൽറ്റികളിൽ നിന്നുള്ള ആദ്യ പ്രതികരണം നിങ്ങൾ അദ്ധ്യാപനത്തെയും പഠനത്തെയും കർശനമായി നിയന്ത്രക്കുന്നു എന്നതാണ് ഇത് കർശന നിയന്ത്രണമല്ല നിങ്ങൾക്കായി നിങ്ങളുടേതായ ഒരു മാർഗ്ഗനിർദ്ദേശം സൃഷ്ടിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്നതാണ് അതുവഴി നിങ്ങൾ ചില ഘടകങ്ങൾ ആകസ്മികമായി ഉപേക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നല്ല ജോലി ചെയ്യാനുള്ള അവസരത്തിനായി നിങ്ങൾ സന്ദർഭത്തെ ആശ്രയിക്കുന്നില്ല പഠനസാമഗ്രികൾ മനസിലാക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇലക്ട്രോണിക്സിലെ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം അതിൽ ചില പ്രസിഷൻ റക്റ്റിഫയറുകളും വോൾട്ടേജ് റെഗുലേറ്ററുകളും രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ തിരിച്ചറിഞ്ഞ ഒരു പാഠപുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ചില ഇന്റർനെറ്റ് ഉറവിടങ്ങളിൽ നിന്നോ ഈ സാമഗ്രികൾ ഉപയോഗിക്കുന്നുണ്ടാകാം തിരഞ്ഞെടുത്ത പാഠപുസ്തകത്തിൽ നിന്ന് പേജ് നമ്പറുകൾ ലിസ്റ്റുചെയ്തുകൊണ്ട് ഞാൻ സാമഗ്രികൾ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങളോടെ ഞാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ലിങ്കുകൾ നൽകുന്നു അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ ഞാൻ കണ്ടെത്തുന്ന സാമഗ്രികളൊന്നും തൃപ്തികരമല്ലെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഞാൻ സാമഗ്രികൾ തയ്യാറാക്കി ഉണ്ടാക്കി വിദ്യാർത്ഥിക്ക് ലഭ്യമാക്കുന്നു അതിനാൽ ഒന്നുകിൽ നിങ്ങൾ പഠനസാമഗ്രികൾ തിരഞ്ഞെടുക്കുകയോ തയ്യാറാക്കുകയോ ചെയ്യുന്നു ഈയിടെയായി നിരവധി അക്കാദമിക് മാനേജ്മെന്റ് സംവിധാനങ്ങൾ വിപണിയിൽ വരുന്നു പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള സാമഗ്രികളും ഓൺലൈൻ ഉറവിടങ്ങളിൽ നിന്നുള്ള അനുബന്ധ വീഡിയോ സാമഗ്രികളും ക്യൂറേറ്റ് ചെയ്യാൻ അവർ നിങ്ങളെ അനുവദിക്കുന്നു തിരിച്ചറിഞ്ഞ പാഠപുസ്തകത്തിൽ നിന്നുള്ള അനുബന്ധ സാമഗ്രികളാണ് പേജ് 76 മുതൽ 85 വരെ എന്ന് ഞാൻ പറയുന്നു ഇപ്പോൾ എനിക്ക് മുഴുവൻ പുസ്തകവും എൻ്റെ സെർവറിൽ ഇടാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പേജുകൾ എടുത്ത് എന്റെ പ്രത്യേക നിർദ്ദേശയൂണിറ്റുമായി ലിങ്കുചെയ്യാൻ കഴിയും അതുപോലെ ഇന്റർനെറ്റിൽ ലഭ്യമായ 30 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല 3 മിനിറ്റ് മാത്രം പ്രസക്തമാണ് ഇന്റർനെറ്റിൽ ലഭ്യമായ 30 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് 3 മിനിറ്റ് അവതരണം ക്ലിപ്പ് ചെയ്യുന്നതിനും അത് പഠനസാമഗ്രികളായി ലഭ്യമാക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അതിനാൽ 30 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ പോകേണ്ടതില്ല അതിനാൽ ചില അക്കാദമിക് മാനേജുമെന്റ് സംവിധാനങ്ങൾ മെറ്റീരിയൽ ക്യൂറേറ്റ് ചെയ്യാനും പഠിതാക്കൾക്ക് ലഭ്യമാക്കാനും ഇൻസ്ട്രക്ടറെ അനുവദിക്കുന്നു അതിനാൽ രസകരമായ ഒരു അഭ്യാസം പരീക്ഷിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നൂറുകണക്കിന് ഫാക്കൽറ്റി അംഗങ്ങളുമായി ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് അവർ ഇത് ആസ്വാദ്യകരമായ അനുഭവമായി കണ്ടെത്തി നിങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ പരിചിതമായ കോഴ്സിൽ നിന്നും തിരഞ്ഞെടുത്ത യോഗ്യതയ്ക്കായി ഒരു ഇൻസ്ട്രക്ഷൻ യൂണിറ്റിന്റെ ഘടനയോ സ്ക്രിപ്റ്റോ സൃഷ്ടിക്കുക പട്ടിക സൃഷ്ടിക്കുന്നതിനായി അത് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ പട്ടിക നിങ്ങളുടെ അഭ്യാസത്തിന്റെ ഫലങ്ങൾ പങ്കുവച്ചാൽ ഞങ്ങൾ വിലമതിക്കുന്നു അടുത്ത യൂണിറ്റ് 12 ൽ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയും നടപ്പാക്കൽ ഘട്ടത്തിൻ്റെ ഉപപ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി